അതിനാൽ ക്വയറി പ്രോസസ്സിംഗ് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഒരു ക്വയറി വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു SQL ക്വയറി വരുന്നു ഡാറ്റാബേസ് യഥാർത്ഥത്തിൽ എങ്ങനെ അതിന് ഉത്തരം നൽകും അതിനാൽ ഡാറ്റാബേസ് സിസ്റ്റം ആദ്യം ചെയ്യുന്നത് SQL ക്വയറി പാഴ്സ് ചെയ്യുകയാണ് ക്വയറി എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഇത് മനസ്സിലാക്കുന്നു ചോദ്യം എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് തുടർന്ന് SQL ക്വയറിക്ക് തുല്യമായ വ്യത്യസ്ത എക്സ്പ്രെഷൻസ് അത് വിലയിരുത്തുന്നു അതിനാൽ അതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഒരു റിലേഷ്ണൽ ആൾജിബ്രയുടെ രൂപത്തിൽ ഉള്ള ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം കാരണം SQL ഒടുവിൽ റിലേഷണൽ ആൾജിബ്രയുടെ രൂപത്തിൽ വിഭജിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് ഈ ക്വയറി എടുക്കാം അതിനാൽ നമുക്ക് മനസ്സിലാകും ഈ ക്വയറിക്ക് അഥവാ എല്ലാ അക്കൌണ്ടുകളിൽ നിന്നും 1000 ൽ കൂടുതൽ ബാലൻസ് ഉള്ളവ കണ്ടെത്തുക എന്നതാണ് ഈ ക്വയറിയുടെ ലക്ഷ്യം ഇപ്പോൾ നമ്മൾ ഈ ക്വയറി എഴുതിക്കഴിഞ്ഞാൽ ഇതിന് ഇനിപ്പറയുന്ന രീതികൾക്ക് തുല്യമായ എക്സ്പ്രെഷൻ ഉണ്ട് അതിനാൽ ഈ രണ്ടു ക്വയറികളും തുല്യമാണ് കൂടാതെ ഒരേ ഔട്ട്പുട്ട് തന്നെ നൽകുന്നതാണ് അതിനാൽ ഒരു ക്വയറി വന്നാൽ രണ്ട് കാര്യങ്ങൾ ചെയ്യും ആദ്യം ക്വയറി അതിനാൽ തത്തുല്യമായ എല്ലാ പ്രവർത്തന പദ്ധതികളും സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ ഇവയെ തുല്യ മൂല്യനിർണ്ണയ പദ്ധതികൾ എന്ന് വിളിക്കുന്നു ഈ ഓരോ മൂല്യനിർണ്ണയ പദ്ധതിക്കും ഒരു ക്വയറി ഓർഡർ ട്രീ സൃഷ്ടിക്കുകയും തുടർന്ന് ക്വയറി ഓർഡർ ട്രീ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഏത് തത്തുല്യമായ ആക്ഷൻ പ്ലാനാണ് വിലയിരുത്തപ്പെടുന്നത് എന്നത് ക്വയറി ഒപ്റ്റിമൈസറിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ക്വയറി ഒപ്റ്റിമൈസർ എന്ന ഒന്ന് അവിടെ ഉണ്ട് അത് നമ്മൾ അടുത്ത അധ്യായത്തിൽ ഉൾപ്പെടുത്തും ക്വയറി ഒപ്റ്റിമൈസർ വ്യത്യസ്തമായ ഈക്വിവാലെന്റ ആക്ഷൻ പ്ലാനുകളിൽ നിന്ന് ഏതായിരിക്കും വേഗമേറിയത് എന്ന് തീരുമാനിക്കും അതിനാൽ ഇവയെല്ലാം അടിസ്ഥാനമാക്കി ക്വയറി കോഡ് ജനറേറ്റു ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു അതിനാൽ ക്വയറി കോസ്റ്റിനെ ബാധിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ക്വയറി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ചെലവ് വ്യത്യസ്തമായ കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാം തീർച്ചയായും നമ്മൾ കണ്ടത് പോലെ കഴിഞ്ഞ തവണ മുതൽ നമ്മൾ ആർഗ്യു ചെയ്യുന്നത് പോലെ ഏറ്റവും പ്രധാനമായത് ഡിസ്ക് ആക്സസ് ആണ് രാന്റവും സീക്വൻഷ്യലും ആയ ഡിസ്ക് IO യുടെ എണ്ണം കൂടുതൽ പ്രാധാന്യമുള്ളതാണ് സമയവും കൂടാതെ CPU സമയവും ഒരു ഘടകമാണ് ചില നെറ്റ്വർക്ക് ആശയവിനിമയം ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് ആശയവിനിമയവും ഒരു ഘടകമാകാം എന്നിരുന്നാലും ഡാറ്റാബേസ് ഒരേ മെഷീനിലാണെങ്കിൽ അവിടെ നെറ്റ്വർക്ക് ആശയവിനിമയമില്ല പക്ഷേ പൊതുവേ അത് ചെയ്യാൻ കഴിയും നമ്മൾ പറഞ്ഞതുപോലെ ഡിസ്ക് ആക്സസുകളാണ് ഏറ്റവും വലിയ ഘടകം അതിനാൽ എല്ലാ ക്വയറി ഒപ്റ്റിമൈസേഷൻ പ്ലാനുകളും സാധാരണയായി ഡിസ്ക് ആക്സസിൽ മാത്രമേ ഒപ്റ്റിമൈസ് ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഡിസ്ക് ആക്സസ് എങ്ങനെ കണക്കാക്കാം റാൻഡം IO സീക്വൻഷ്യൽ IO കോസ്റ്റ് എന്നിവ അടിസ്ഥാനമാക്കി ഡിസ്ക് ആക്സസ്സുകൾ കണക്കാക്കാം അതിനാൽ ഡിസ്ക് സീക്സുകളുടെ എണ്ണം ഇവയിൽ ഡിസ്ക് റൊട്ടേഷനും ഉൾപ്പെടുന്നു തുടർന്ന് എണ്ണം അതിനാൽ ഈ ഡിസ്കുകളുടെ എണ്ണം ഒരു ഘടകമാണ് റീഡ് ചെയ്യപ്പെടുന്ന ബ്ലോക്കുകളുടെ എണ്ണം തീർച്ചയായും ഈ കോഴ്സിന്റെ ഭാഗമായി അനുമാനിക്കപ്പെടുന്ന ശരാശരി ബ്ലോക്ക് റീഡിങ് സമയമാണ് ശരാശരി ഡിസ്ക് ബ്ലോക്ക് റീഡിംഗ് സമയം റീഡ് ചെയ്യപ്പെടുന്ന ബ്ലോക്കുകളുടെ എണ്ണത്തിന് സമാനമായി നിരവധി ഡിസ്ക് ബ്ലോക്കുകൾ റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും ഇപ്പോൾ പൊതുവെ റൈറ്റിംഗ് സമയം റീഡിങ് സമയത്തേക്കാൾ കൂടുതലാണ് കാരണം ഡാറ്റാബേസ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുതിയത് ശരിയാണോ എന്ന് കൂടി പരിശോധിക്കുന്നു അതിനാൽ അതിൽ ഒരു റീഡിങ് സമയം മറച്ചിരിക്കുന്നു ഈ ഓരോ ബ്ലോക്കിന്റെയും ശരാശരി സമയം വീണ്ടും റീഡ് ചെയ്യുന്നു അതിനാൽ ചെയ്യാനാകുന്ന മൂന്നു കാര്യങ്ങൾ ഇവയാണ് പക്ഷേ വളരെ ലളിതമായി ഇത് ഇനിപ്പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു അതിനാൽ ഡിസ്ക് സീക്സിന്റെ എണ്ണവും ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണവും ഉണ്ടെന്ന് കരുതുക അതിനാൽ പൊതുവെ നമ്മൾ റീഡിങ്ങിന്റെയും റൈറ്റിംഗിന്റെയും വ്യത്യാസം അവഗണിക്കും നിങ്ങൾ ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണം എന്ന് നിങ്ങൾക് പറയാം അതിനാൽ ക്വയറി കോസ്റ്റ് അഥവാ സമയം എന്ന് ലളിതമായി കണക്കാക്കുന്നു ഇത് ഒരു ഡിസ്ക് സീക്കിനുള്ള ശരാശരി സമയമാണ് ഇത് ശരാശരി സീക് സമയമാണ് ഇത് ശരാശരി ബ്ലോക്ക് സമയമാണ് അതിനാൽ അവിടെയുള്ള രണ്ട് പ്രധാന ഘടകങ്ങൾ സീക്കുകളുടെ എണ്ണവും ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണവുമാണ് അതിനാൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ക്വയറി പ്രോസസ്സിംഗ് അൽഗോരിതങ്ങളും സീക്കുകളുടെ എണ്ണം എന്താണ് ബ്ലോക്ക് ട്രാൻസ്ഫറുകളുടെ എണ്ണം എന്താണ് എന്ന് കണക്കാക്കാൻ ശ്രമിക്കും കാരണം മറ്റെല്ലാം കോൺസ്റ്റന്റ് ആണ് കൂടാതെ അത് അവിടെ നിന്ന് കണ്ടെത്താനാകും അതിനാൽ ഇവ സിപിയു സമയത്തെ അവഗണിക്കുന്നു അതിനാൽ വളരെ പ്രധാനമായി അത് അവഗണിക്കുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം യഥാർത്ഥ സിസ്റ്റത്തിൽ ഇത് ഒരു പങ്കു വഹിക്കുന്നു അത് സിപിയു സമയം അവഗണിക്കുന്നു ബഫറിംഗ് സമയം അവഗണിക്കുന്നു നമ്മൾ പറഞ്ഞതുപോലെ റൈറ്റ്സ് അല്ലെങ്കിൽ ബഫർ മുതലായവ ഇത് പൊതുവെ റൈറ്റ് വെരിഫിക്കേഷൻ സമയം അവഗണിക്കുകയും നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് കരുതുകയും ചെയ്യുന്നു അതിനാൽ നെറ്റ്വർക്ക് ടൈം സീക്സ് അവഗണിക്കപ്പെടുന്നു അതിനാൽ ഈ ക്വയറി കോസ്റ്റ് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരാൾ മനസ്സിലാക്കേണ്ട പ്രധാന അനുമാനങ്ങൾ ഇവയാണ് അതിനാൽ ഒരിക്കൽ കൂടി പ്രധാനപ്പെട്ട കാര്യം എന്നത് സീക്കുകളുടെ എണ്ണവും ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണവുമാണ് അതിനാൽ നമുക്ക് ചില അൽഗോരിതം വിശദമായി പരിശോധിക്കുകയും അവ ഓരോന്നും വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം അതിനാൽ ആദ്യത്തേത് സെലെക്ഷനാണ് ഈ സെലെക്ഷൻ എസ്ക്യുഎല്ലിലല്ല റിലേഷണൽ ആൾജിബ്രാ സെറ്റുകളിലാണെന്ന് ഓർക്കുക അതിനാൽ ഇത് റിലേഷണൽ ആൾജിബ്രയിലെ സെലെക്ഷനാണ് അതിനാൽ സെലെക്ഷൻ എങ്ങനെ ചെയ്യാം അതിനാൽ സെലെക്ഷൻ ഓർമ്മ പുതുക്കാനായി മാത്രം ഓരോ ട്യൂപ്പിളിനും സെലെക്ഷൻ ട്യൂപ്പിൾ ആൻസർ സെറ്റിന്റെ ഭാഗമാകുമോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ ഇത് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ട്യൂപ്പിൾ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ആദ്യം ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാന അൽഗോരിതം ഒരു ലീനിയർ സെർച്ച് ആണ് ഒരു ലീനിയർ സെർച്ച് അൽഗോരിതം എന്താണ് ചെയ്യുന്നത് ഇത് എല്ലാ ട്യൂപ്പിളുകളിലൂടെയും കടന്നുപോകുന്നു പ്രെഡിക്കേറ്റ് അപ്ലൈ ചെയ്യുന്നു അഥവാ സെലെക്ഷൻ പ്രെഡിക്കേറ്റ് അത് കടന്നുപോയാൽ അത് നല്ലതാണ് അത് ഔട്ട്പുട്ട് ആണ് അല്ലാത്തപക്ഷം അത് അല്ല അതിനാൽ ലീനിയർ സെർച്ച് എല്ലായ്പ്പോഴും ബാധകമാണ് സെലെക്ഷൻ പ്രെഡിക്കേറ്റ് എന്തുതന്നെ ആയാലും അത് എല്ലായ്പ്പോഴും ബാധകമാണ് കൂടാതെ ഇത് എല്ലാ ഫയലുകളും സ്കാൻ ചെയ്യുകയും ഈ ഓരോ റെക്കോർഡുകളും പരിശോധിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു റിലേഷനുള്ള കോസ്റ്റ് എന്താണ് അതിനാൽ ഒരു റിലേഷൻ r ഉണ്ടെന്ന് കരുതുക അതിന്റെ ആകെ വലുപ്പം ബ്ലോക്കാണ് അതിനാൽ റിലേഷൻ പൂർണമായും ബ്ലോക്കുകൾ എടുക്കുന്നു ഈ വസ്തുവിന്റെ ആകെ വലുപ്പം ബ്ലോക്കുകളാണ് അതിനാൽ ലീനിയർ സെർച്ചിനുള്ള കോസ്റ്റ് എത്രയാണ് ഇത് അടിസ്ഥാനപരമായി ഒരു സീക് ആണ് കാരണം ഇത് റിലേഷൻ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ ആരംഭത്തിലേക്ക് പോകേണ്ടതുണ്ട് അതിനാൽ ഇവിടെ അത് തുടർച്ചയായി സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് അനുമാനിക്കുന്നു റിലേഷൻ പൂർണമായും തുടർച്ചയായി സ്റ്റോർ ചെയ്തിരിക്കുന്നു അതിനാൽ നമ്മൾ കടന്നുപോകുന്ന അനുമാനങ്ങൾ ഇവയാണ് എല്ലാ അൽഗോരിതങ്ങൾക്കും നമ്മൾ അനുമാനിക്കുന്നവ ഇത് ഒരു സീക്ക് പ്ലസ് ട്രാൻസ്ഫറുകൾ ആണ് അതിനാൽ ലീനിയർ സെർച്ചിനെക്കുറിച്ചുള്ള രണ്ട് പ്രധാന ഭാഗങ്ങൾ ഇവയാണ് അവിടെ ഒരു സീക് മാത്രമേയുള്ളൂ കൂടാതെ അവിടെ ട്രാൻസ്ഫറുകൾ ഉണ്ട് ലീനിയർ സെർച്ചുമായി ബന്ധപ്പെട്ട് അത്രയുമാണ് ഉള്ളത് കാരണം ഇത് മുഴുവൻ റിലേഷനിലൂടെയും പോകുകയും ഓരോ റെക്കോർഡും ഓരോന്നായി പരിശോധിക്കുകയും ചെയ്യുന്നു അടുത്ത പ്രധാന അൽഗോരിതം തീർച്ചയായും ബൈനറി സെർച്ച് ആണ് ഇപ്പോൾ ബൈനറി സെർച്ച് കൂടുതൽ ഉപയോഗപ്രദമാണെങ്കിലും വേഗതയുള്ളതാണെങ്കിലും ചില പശ്ചാത്തലങ്ങൾ ആവശ്യമാണ് അതിനാൽ താരതമ്യം ചെയ്യപ്പെടുന്ന ആട്രിബ്യൂട്ടിന് അനുസൃതമായി റിലേഷൻ സോർട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ബാധകമാകൂ അതിനാൽ സെലെക്ഷൻ എല്ലാത്തരം സെലെക്ഷൻ പ്രെഡിക്കേറ്റുകള്ക്കും അപ്ലൈ ചെയ്യാൻ കഴിയില്ല അത് റിലേഷൻ സോർട് ചെയ്യുന്ന പ്രെഡിക്കേറ്റിൽ മാത്രമായിരിക്കണം ഒരിക്കൽ അത് ചെയ്തുകഴിഞ്ഞാൽ കോസ്റ്റ് താഴെ പറയുന്ന രീതിയിൽ വിഭജിക്കാവുന്നതാണ് ഇത് ഒരു തുല്യത മാത്രമാണെന്ന് കരുതുക അതിനാൽ നിങ്ങൾക്ക് തുല്യത കണ്ടെത്താൻ താൽപ്പര്യപ്പെട്ടേക്കാം അതിനാൽ ഒരു പ്രത്യേക കാര്യത്തിന് തുല്യമായ റെക്കോർഡ് കണ്ടെത്തുക അപ്പോൾ അതിനുള്ള ഉത്തരം സീക്സുകളും അത്ര തന്നെ ട്രാൻസ്ഫെറുകളും ആണ് കാരണം ഇത് റാൻഡം ജമ്പ്സ് ആണ് അതിനാൽ ഈ ബ്ലോക്കുകളിൽ ഓരോന്നിനുമുള്ള നിരവധി സീക്കുകൾക്ക് നമുക്ക് ഒരു സീക്കും ഒരു ട്രാൻസ്ഫറും ആവശ്യമാണ് അതിനാൽ അതാണ് ഉത്തരം എന്നിരുന്നാലും വ്യത്യസ്ത കേസുകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനാൽ തുല്യതയുടെ അവസ്ഥ തുല്യത സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ട്യൂപ്പുകളും ഒരു ബ്ലോക്കിൽ ഉൾപ്പെടാത്ത ഒരു പ്രെഡിക്കേറ്റിൽ ആണെന്ന് കരുതുക തുടർന്ന് അടുത്ത ബ്ലോക്ക് സെർച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനാൽ ഇത് ഒരു യാഥാസ്ഥിതിക കണക്കാണ് അതിനാൽ നിരവധി സീക്സും ട്രാൻസ്ഫെഴ്സും ആവശ്യമാണ് ഇത് ഒരു ശരാശരി കണക്കാണ് മാത്രമല്ല ഈ അവസ്ഥ ഇപ്പോൾ അസമത്വത്തിലേക്കു മാറ്റപ്പെട്ടു എന്ന് കരുതുക എന്നാൽ അത് ഒരു പ്രത്യേക വാല്യൂവിനേക്കാൾ വലുതാണ് എന്ന് നമുക്ക് പറയാം പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നാൽ ആദ്യത്തെ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തു അതിനുശേഷം മുതൽ ഫയലിന്റെ അവസാനം വരെയുള്ള മറ്റെല്ലാം സ്കാൻ ചെയ്യുന്നു അതിനാൽ ആദ്യത്തെ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തു അതിനുശേഷം മറ്റെല്ലാം റീഡ് ചെയ്യുന്നു അതിനാൽ മറ്റെല്ലാം റീഡ് ചെയ്യുന്നു അതിനർത്ഥം നിരവധി ബ്ലോക്ക് ട്രാൻസ്ഫറുകൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് കാരണം ഇവ തുടർച്ചയായി റീഡ് ചെയ്യപ്പെടുന്നു അതിനാൽ നിരവധി ബ്ലോക്ക് ട്രാൻസ്ഫറുകൾ ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഇത്രയുമാണ് ഗ്രെയ്റ്റർ താൻ കേസിലുള്ളത് ലെസ്സ് താൻ കേസിൽ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി രസകരമാണ് ഗ്രെയ്റ്റർ താൻ കേസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള മുമ്പത്തെ തന്ത്രം ലെസ്സ് താൻ കേസിൽ പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ കഴിയില്ല കാരണം ഫയൽ പുറകിലേക്ക് സ്കാൻ ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇവിടെ മറിച്ചാണ് ചെയ്യുന്നത് ഫയൽ അതിന്റെ തുടക്കം മുതൽ സ്കാൻ ചെയ്യുന്നു അത് തുടരുന്നു ഇത് ഏതിനാണോ ലെസ്സ് താൻ വാല്യൂ വരുന്നത് അത് സോർട് ചെയ്യുന്നത് വരെ സ്കാൻ തുടരുന്നു അതിനാൽ എല്ലാ ബ്ലോക്ക് ട്രാൻസ്ഫറുകളുടെയും കൂടെ ഒരു സീക് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ ഈ ബൈനറി സെർച്ചിനു കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രണ്ട് വഴികളാണിത് ഇൻഡക്സ് സെർച്ച് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന തരം സെർച്ച് ഉണ്ട് അതിനാൽ എന്താണ് ഒരു ഇൻഡക്സ് സെർച്ച് നമ്മൾ നേരത്തെ കണ്ട ആ ഇൻഡക്സ് ബി പ്ലസ് ട്രീ B tree ബി പ്ലസ് ട്രീ B tree ഇൻഡക്സ് ഉപയോഗിച്ചാണ് സെർച്ച് നടത്തുന്നത് അതിനാൽ ഇത് ആ പ്രൈമറി ഇൻഡക്സ് ഉപയോഗിച്ചുള്ള ഒരു സെർച്ചിങ് ആണ് ഇപ്പോൾ ബി ട്രീയുടെ B tree ഉയരം ആണെന്ന് കരുതുക അതിനാൽ ഇതിനർത്ഥം അവിടെ സീക്സ് ഉണ്ടെന്നാണ് തുടർന്ന് ശരിയായ കാര്യത്തിലേക്ക് പോകാൻ ട്രാൻസ്ഫറുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത് ലീഫ് സെർച്ച് ചെയ്യേണ്ടതുണ്ട് വീണ്ടും ഇത് മുഴുവൻ ഉത്തരവും ഒരു ബ്ലോക്കിലേക്ക് ചേരുന്നുവെന്ന് അനുമാനിക്കുന്നു അല്ലാത്തപക്ഷം ചില ട്രാൻസ്ഫറുകൾ ചേർത്തിട്ടുണ്ട് അതിനാൽ ഉത്തരങ്ങളുടെ എണ്ണം ഒന്നിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ കൂടുതൽ ട്രാൻസ്ഫറുകൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ അത് പ്രധാനമായും B ട്രീയുടെ B tree ഉയരത്തിന് തുല്യമാണ് അതിനാൽ ഇവയ്ക്ക് തീർച്ചയായും 0 ആണെന്ന് അനുമാനിക്കപ്പെടുന്നു അതിനാൽ കൂടുതൽ ട്രാൻസ്ഫറുകൾ ആവശ്യമില്ല അതിനാൽ ബി ട്രീ B tree ഇൻഡെക്സിൻമേൽ നിർമ്മിക്കുമ്പോൾ ഉള്ളതാണ് ഇത് ബി ട്രീ B tree പ്രെഡിക്കേറ്റ് സെർച്ച് ചെയ്യപ്പെടുന്ന ആട്രിബ്യൂട്ടിൻമേൽ നിർമ്മിക്കുമ്പോൾ ഉള്ളതാണ് ഇത് അല്ലാത്തപക്ഷം ഇത് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇത് ഒരു പ്രൈമറി ഇൻഡക്സ് ആണെങ്കിൽ ഇതാണ് മുഴുവൻ കോസ്റ്റും ഇനി ഇതൊരു സെക്കന്ററി ഇൻഡക്സ് ആണെങ്കിൽ അവിടെ കൂടുതൽ സീക്കുകളും ട്രാൻസ്ഫെറുകളും ഉണ്ടായേക്കാം കാരണം ആട്രിബ്യൂട്ടുകൾ വ്യത്യസ്ത ബ്ലോക്കുകളിൽ ആയിരിക്കാം സംഭരിക്കപ്പെടുന്നത് ആട്രിബ്യൂട്ടുകളുമായി പൊരുത്തപ്പെടുന്ന ട്യൂപ്പിളുകൾ വ്യത്യസ്ത ബ്ലോക്കുകളിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ വീണ്ടും ഇത് ഒരു തുല്യത ആണെന്ന് അനുമാനിക്കുകയാണെങ്കിൽ ഇത് സെർച്ചിനേക്കാൾ വലുതാണെങ്കിൽ ഇക്വാലിറ്റി സെർച്ചിൽ ചേരുക അതിനാൽ പ്രെഡിക്കേറ്റ് ഗ്രെയ്റ്റർ താൻ ആണ് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നാൽ ബൈനറി സെർച്ച് ചെയ്തതിന് സമാനമാണ് തുടർന്ന് അതേ കാര്യം അഥവാ ബൈനറി സെർച്ച് ചെയ്യുന്നത് പിന്തുടരുന്നു അതിനാൽ ആദ്യം ഇൻഡക്സ് ഉപയോഗിച്ച് ആദ്യത്തെ ബ്ലോക്ക് ലൊക്കേറ്റ് ചെയ്യുന്നു തുടർന്ന് ഇൻഡക്സ് മുതൽ സെർച്ച് ചെയ്യുന്നു ഓർക്കുക ബി ട്രീ B tree സാധാരണയായി ലീഫുകൾ ഇരട്ട ലിങ്ക് ലിസ്റ്റിലെന്നപോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ അത് ഏത് വഴിക്കും പോകാം അത് ഇരട്ട ലിങ്ക് ലിസ്റ്റാണെങ്കിൽ അടുത്ത ലീഫുകൾ പിന്തുടരും സമാനമായ ഒരു കാര്യം ലെസ്സ് താനു വേണ്ടിയും ചെയ്യുന്നു ഇത് ഇരട്ട ലിങ്ക് ലിസ്റ്റാണെങ്കിൽ ഈ പ്രത്യേക വാല്യൂവുമായി പൊരുത്തപ്പെടുന്ന ബ്ലോക്ക് ഇരട്ട ലിങ്ക് ലിസ്റ്റാണെങ്കിൽ കൂടാതെ ഇവ ഇരട്ട ലിങ്ക് ലിസ്റ്റായതിനാൽ ഇത് രണ്ട് വഴികളിലൂടെയും കടന്നുപോകാം കൂടാതെ ലെസ്സ് താൻ കണ്ടിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റ് ബ്ലോക്കുകൾ സെർച്ച് ചെയ്യാനും ഇത് ചെയ്യാം അതിനാൽ ഇതാണ് സിബിലിങ് ലീഫ് പോയിന്റർ ഇത് ബി ട്രീയുടെ B tree സവിശേഷതയാണ് അതായത് ഇവ ഇരട്ട ലിങ്ക് ലിസ്റ്റാണ് ഇവ ലീഫുകൾക്കിടയിലാണ് ഇവ ഇരട്ട ലിങ്ക് ലിസ്റ്റിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഇരട്ട ലിങ്ക് ലിസ്റ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ട ലിങ്ക് ലിസ്റ്റിന്റെ സവിശേഷതയാണ് ഇത് അതിനാൽ ഇത്രയുമാണ് ഇൻഡക്സ് സെർച്ചിനെക്കുറിച്ച് ഇപ്പോൾ സെലെക്ഷൻ ഒരൊറ്റ ആട്രിബ്യൂട്ടിലാണെന്ന് നമ്മൾ അനുമാനിക്കുകയായിരുന്നു തുടർന്ന് നമുക്ക് മൂന്ന് അൽഗോരിതം ഉണ്ട് ലീനിയർ സെർച്ച് ബൈനറി സെർച്ച് പിന്നെ ഇൻഡക്സ് സെർച്ച് ഇപ്പോൾ സെലെക്ഷൻ ഒരൊറ്റ ആട്രിബ്യൂട്ടല്ല മറിച്ച് ഒന്നിലധികം ആട്രിബ്യൂട്ടുകളാണെന്ന് കരുതുക അതിനാൽ ഒന്നിലധികം ആട്രിബ്യൂട്ടുകളിലെ സെലെക്ഷൻ അതിനാൽ കണ്ടിഷൻ ഒരു സംയോജനമാണെന്ന് കരുതുക അതിനാൽ ഇതൊരു AND കണ്ടിഷൻ ആണ് രണ്ട് ആട്രിബ്യൂട്ടുകളിലെ സെലക്ഷന്റെ AND സംയോജനം അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ടാകാം ആദ്യം ഒരൊറ്റ ഇൻഡക്സ് ഉണ്ടെന്ന് കരുതുക അതിനാൽ ഒരൊറ്റ ആട്രിബ്യൂട്ടിൽ നിർമ്മിച്ച ഒരു ഇൻഡക്സ് ഉണ്ട് ആദ്യ ആട്രിബ്യൂട്ടിനോട് മാച്ച് ആവുന്നതെല്ലാം ചെയ്യാവുന്ന മറ്റ് ആട്രിബ്യൂട്ടുകളുമായി മാച്ച് ആവുമോ എന്ന് പരിശോധിക്കുന്നു കാരണം ഇത് ഓണാണ് ആദ്യത്തേത് മാച്ച് ആവണം അതിനാൽ മറ്റ് ആട്രിബ്യൂട്ടുകളുമായി പൊരുത്തപ്പെടുന്നതിനുള്ള ആദ്യ ടെസ്റ്റുമായി മാച്ച് ആവുന്ന എല്ലാം മറ്റ് ആട്രിബ്യൂട്ടുകളുമായി മാച്ച് ചെയ്യുന്നതിന് തുടർന്ന് കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ അത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് അത് മറ്റൊന്ന് ഒരു ഇൻഡക്സ് ഒരു മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട് ഇൻഡെക്സിന്മേൽ നിർമ്മിക്കാവുന്നതാണ് ഇത് നിർമ്മിക്കുന്നതിനുള്ള വ്യത്യസ്ത മാർഗങ്ങളുണ്ടാകാം അത് നമ്മൾ വിവരിക്കാത്ത ചില നൂതന വിഷയങ്ങളാണ് കെ ഡി ട്രീ അല്ലെങ്കിൽ ആർ ട്രീ മുതലായ ട്രീസ് അവിടെ ഉണ്ടാവാം ഇൻഡക്സ് തന്നെ ഒന്നിലധികം ആട്രിബ്യൂട്ടുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനുശേഷം ആ ഇൻഡെക്സ് നേരിട്ട് അത് നിർമ്മിക്കാൻ ഉപയോഗിക്കാം അതിനാൽ ഇത്രയുമാണ് സംയോജനത്തെക്കുറിച്ച് ഇത് വിച്ഛേദിക്കലിനെക്കുറിച്ചോ അല്ലെങ്കിൽ AND OR കണ്ടിഷനെക്കുറിച്ചോ ആണെങ്കിൽ കഥ അല്പം വ്യത്യസ്തമാണ് അതിനാൽ ആട്രിബ്യൂട്ടുകളുടെ ഡിസ്ജംഗ്ഷൻ OR അപ്പോൾ കഥ വ്യത്യസ്തമാണ് അപ്പോൾ വിച്ഛേദത്തിന്റെ ചില ആട്രിബ്യൂട്ടുകളിൽ ഒരു ഇൻഡെക്സ് നിർമ്മിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ലീനിയർ സ്കാൻ ആണ് അതിനാൽ ആദ്യത്തെ കാര്യം ലീനിയർ സ്കാൻ ആണ് ഇവയിൽ ഒന്നിൽ ഇൻഡെക്സ് നിർമ്മിച്ചിട്ടില്ലെങ്കിൽ അത് മാത്രമേ ചെയ്യാനാകൂ അല്ലാത്തപക്ഷം ചെയ്യാൻ കഴിയുന്നത് ഒരു തന്ത്രമാണ് അതിനാൽ വിച്ഛേദനം സംയോജനത്തിന്റെ നിഷേധമായി എഴുതാം അതിനാൽ സംയോജനം കടന്നുപോകാത്തതെല്ലാം വിച്ഛേദത്തിന്റെ ഭാഗമാണ് അതിനാൽ ഈ സംയോജനം മുമ്പത്തെ കേസ് പോലെ തന്നെ ചെയ്യാവുന്നതാണ് എല്ലാം അത് ഔട്ട്പുട്ട് ചെയ്യുമ്പോഴെല്ലാം വിപരീതമായ ഔട്ട്പുട്ട് ആണ് അതിനാൽ സംയോജനത്തിന്റെ നിഷേധം ചെയ്യാൻ കഴിയും പക്ഷേ മിക്കപ്പോഴും ലീനിയർ സ്കാൻ ആണ് വിച്ഛേദത്തിന്റെ സ്ഥാനത്ത് ഏറ്റവും ഉപകാരപ്രദമായ അൽഗോരിതം കാരണം സംയോജനത്തിന്റെ നിഷേധം ചിലപ്പോൾ പ്രയോഗിക്കാവുന്നതാണ് പക്ഷേ എല്ലായ്പ്പോഴും അല്ല ഇത് എല്ലായ്പ്പോഴും പ്രയോഗിക്കാനാകുമെന്ന അർത്ഥത്തിൽ അല്ല പക്ഷേ അത് പ്രയോജനപ്പെട്ടേക്കില്ല ലീനിയർ സെർച്ച് മികച്ചതായിരിക്കാം അതിനാൽ ഇത് ചെയ്യുന്നതിന് രണ്ട് വഴികളുണ്ട് ഇത് ഒരു വഴിയാണ് മറ്റൊന്ന് ഈ വഴിയാണ് കാരണം സംയോജനത്തെ നിഷേധിക്കുക എന്നത് അർത്ഥമാക്കുന്നത് താരതമ്യത്തെ നിഷേധിക്കുക എന്നാണ് താരതമ്യത്തെ നിഷേധിക്കുന്നതും അടിസ്ഥാനപരമായി മറ്റൊരു താരതമ്യമാണ് ഉദാഹരണത്തിന് ലെസ്സ് താൻ എന്നത് നെഗറ്റീവ് ആണെങ്കിൽ അത് അടിസ്ഥാനപരമായി ഗ്രെയ്റ്റർ താൻ ആകുന്നു അതിനാൽ ഇത്രയുമാണ് സെലക്ട് നെക്കുറിച്ച്